അവസാന പ്രഭാഷണത്തിൽ നമ്മൾ റിക്കർഷനെക്കാൾ ഐട്രേറ്റിവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നത് എങ്ങനെ എന്ന് നോക്കി ഇത് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളായി മെമ്മോഐസേഷനും ഡൈനാമിക് പ്രോഗ്രാമിംഗും നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു സാധാരണ പ്രശ്നം നോക്കാം കൂടാതെ നമുക്ക് എങ്ങനെ ഈ വിദ്യ പ്രയോഗിക്കാമെന്ന് നോക്കാം ഗ്രിഡ് പാത്തിന്റെ ഒരു പ്രശ്നം ഇതാ നമുക്ക് ഇവിടെ ഒരു ഗ്രിഡ് ഉണ്ട് ചതുരാകൃതിയിലുള്ള രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന റോഡുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും കവലകൾ അക്കമിട്ടതായി നമുക്ക് ഊഹിക്കാനാകും നമുക്ക് ഇടത് മൂലയിൽ0 0 ഉണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് 5 10 ഉണ്ട് കാരണം ഇടത്തുനിന്ന് വലത്തോട്ട് നമുക്ക് 1 2 3 4 5 പോകുമ്പോൾ എന്നിങ്ങനെ വ്യത്യസ്ത കവലകളും മുകളിലേക്ക് പോകുമ്പോൾ 10ഉം ഉണ്ട് നമുക്ക് 5 10 മുകളിൽ വലത് കോണിൽ ഉണ്ട് ഇവ റോഡുകളാണെങ്കിൽ ഒരാൾക്ക് മുകളിലേക്കോ വലത്തേക്കോ മാത്രമേ സഞ്ചരിക്കാനാകൂ എന്നതാണ് നമ്മുടെ പരിമിതി നിങ്ങൾക്ക് മുകളിലുള്ള ഒരു റോഡിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വലത്തോട്ടു പോകാം പക്ഷേ നിങ്ങൾക്ക് താഴേക്ക് വരാൻ കഴിയില്ല ഇത് അനുവദനീയമല്ല വൺവേ റോഡുകളാണ് മുകളിലേക്കും വലത്തേയ്ക്കും പോകുന്നവ താഴെ ഇടത് മൂലയിൽ നിന്ന് മുകളിൽ വലത് കോണിലേക്ക് പോകാൻ എത്ര വഴികളുണ്ട് എന്നതാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്രിഡ് പാത്തുകൾ എന്ന് വിളിക്കുന്നവയുടെ എണ്ണം കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ഗ്രിഡ് പാത ഇതുപോലെ തുടർന്നുവരുന്ന ഒന്നാണ് 0 0 മുതൽ 5 10 വരെ മുകളിലേക്കോ വലത്തേക്കോ പോകുന്ന അത്തരം വ്യത്യസ്ത പാത്ത് എത്രയാണെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവിടെ വരച്ച നീല ഒരു പാത ആണ് ഇവിടെ വരച്ച മറ്റൊരു പാത ചുവപ്പ് നിറത്തിൽ ഉണ്ട് ഈ 2 പാത്ത് യഥാർത്ഥത്തിൽ ആദ്യ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് വ്യത്യസ്ത ദിശയിൽ പോകുന്നു അവ ടാർഗെറ്റിൽ എത്തുമ്പോൾ മാത്രമാണ് കൂട്ടിമുട്ടുന്നത് അവയൊന്നും ഓവർലാപ്പ് ചെയ്യുന്നില്ല മറുവശത്ത് നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന പാത്ത് ഉണ്ടാകും ഈ മഞ്ഞ പാത അതിന്റെ ഈ ഭാഗത്തെ നീല പാതയിലൂടെ ഒരു സ്ഥലത്തു ഓവർലാപ്പ് ചെയ്യുന്നു മാത്രമല്ല ഇത് 2 ഭാഗങ്ങളിൽ ചുവന്ന പാതയുമായി ഓവർലാപ്പ് ചെയ്യുന്നു ഇത് മുകളിലേക്കും വലത്തേക്കും നീക്കങ്ങൾ നടത്തുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് കൂടാതെ അത്തരം വ്യത്യസ്ത പാത്ത് എത്രയെണ്ണം ഉണ്ട് എന്നതാണ് ചോദ്യം വളരെ സ്റ്റാൻഡേർഡും ഗംഭീരവുമായ കോമ്പിനേറ്റോറിയൽപരിഹാരമുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു മാർഗം നമുക്ക് എത്ര നീക്കങ്ങൾ നടത്തണം എന്ന് നിർണ്ണയിക്കാൻ മാത്രമാണ് നമ്മൾ ഒരു ദിശയിൽ 0 മുതൽ 5 വരെ പോയിമറ്റൊരു ദിശയിൽ 0 മുതൽ 10 വരെ പോയി നമ്മൾ ആകെ 5 ഹൊറിസോണ്ടൽ നീക്കങ്ങളും 10 വെർട്ടിക്കൽ നീക്കങ്ങളും നടത്തണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏത് ദിശയിലാണ് നമ്മൾ ആരംഭിച്ചതെങ്കിലും ഏത് നീക്കമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിലും നമ്മൾ 15 സ്റ്റെപ്സ് എടുക്കണം അതിൽ 5 എണ്ണം ഹൊറിസോണ്ടൽ ആകണം 10 സ്റ്റെപ്സ് വെർട്ടിക്കൽ സ്റ്റെപ്സ് ആയിരിക്കണം അത് നമ്മളെ 0 0 നിന്ന് 5 10 വരെ എത്തിക്കും ഈ 5 ഘട്ടങ്ങൾ ഹൊറിസോണ്ടൽ ആണ് 10 സ്റ്റെപ്സ് വെർട്ടിക്കൽ ആണ് അതുകൊണ്ട് നമ്മൾ വേർതിരിച്ചറിയുന്ന വിധം മാർക്ക് ചെയ്യുന്നു അതായത് ഏതൊക്കെ ഹൊറിസോണ്ടൽ ആണ് ഏതൊക്ക വെർട്ടിക്കൽ ആണ് എന്നു അറിയാം ഏതാണ് ഹൊറിസോണ്ടൽ എന്ന് ഇപ്പോൾ നമുക്കറിയാം അവ ഏത് ശ്രേണിയിലാണ് വരുന്നതെന്ന് നമുക്കറിയാം കാരണം ആദ്യത്തെ ഹൊറിസോണ്ടൽ സ്റ്റെപ് നമ്മെ കോളം 0 മുതൽ കോളം 1 വരെയും രണ്ടാമത്തെത് നമ്മെ ഒന്ന് മുതൽ 2 വരെയും കൊണ്ടുപോകുന്നു അല്ലാതെ മറ്റൊരു ക്രമത്തിലും നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് 15 സ്ലോട്ടുകൾ ഉണ്ട് അവിടെ നമുക്ക് നീക്കങ്ങൾ നടത്താം എന്നിട്ട് ആദ്യം നമ്മൾ മുകളിലേക്ക് പോകുന്നുവെന്ന് പറയുന്നു തുടർന്ന് നമ്മൾ വലത്തോട്ട് നീക്കം നടത്തുന്നു തുടർന്ന് നമ്മൾ മുകളിലേക്ക് നീങ്ങുന്നു തുടർന്ന് മറ്റൊരു നീക്കം മുകളിലേക്ക് നടത്തുന്നു എല്ലാ പാതകളും10 മുകളിലേക്കുള്ള നീക്കങ്ങളും 5 വലത് നീക്കങ്ങളും പോലെ ഇതുപോലെ വരയ്ക്കാം കൂടാതെ നമ്മൾ 5 വലത് നീക്കങ്ങൾ ഉറപ്പിച്ചാൽ ബാക്കിയുള്ള എല്ലാ സ്ലോട്ടുകളും 10 മുകളിലേക്കുള്ള നീക്കങ്ങൾ ആയിരിക്കും അല്ലെങ്കിൽ വിപരീതമോ ആയിരിക്കണം ഇത് 15 ചൂസ് 5 ആണ് 15 സ്ഥാനങ്ങളിൽ നിന്ന് വലത്തോട്ടുള്ള നീക്കം നടത്താൻ 5 സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗ്ഗമാണിത് കൂടാതെ 15 ചൂസ് 5 എന്നതിന്റെ ഡെഫിനിഷ്യൻ 15 ചൂസ് 10 ന് തുല്യമാണെന്ന് വ്യക്തമാണ് കാരണം നമുക്ക് 10 മുകളിലേക്കുള്ള നീക്കങ്ങളും എടുക്കാം ഡെഫിനിഷ്യൻസ് അടിസ്ഥാനപരമായി ഇത് ആണ് നിങ്ങൾക്ക് അറിയാം എങ്കിൽ n ചൂസ് k എന്നാൽ n ഫാക്റ്റോറിയൽ ബൈ k ഫാക്റ്റോറിയൽ ഇന്റു n മൈനസ് k ഫാക്റ്റോറിയൽ ആണ് ഈ കെ എൻ മൈനസ് കെ എന്നിവ അടിസ്ഥാനപരമായി 15 മൈനസ് 5 10ആണെന്ന് പറയുന്നു k n മൈനസ് k എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സിമെട്രിക് ഫങ്ഷൻ ലഭിക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഫോർമുല പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾക്കതിനെ വിളിക്കാനും ഉത്തരം 3003 ആണെന്ന് നേരിട്ട് ലഭിക്കുന്നു വേറെ വലിയ കണക്കുകൂട്ടൽ ഒന്നും ഇല്ല ഈ ഫക്ടോറിയൽ എഴുതി ഉത്തരം എന്തെന്ന് കണ്ടെത്തണം പക്ഷേ ഈ കവലകളിൽ ചിലത് ബ്ലോക്ക് ചെയ്തു നമ്മൾ ഇത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം കുറച്ചു രസകരമാവും ഉദാഹരണത്തിന് ചില റോഡ് ജോലികൾ നടക്കുന്നുണ്ടെന്നു പറഞ്ഞ് ഈ 2 4 കവലയിലൂടെ നമുക്ക് പോകാനാവില്ലെന്നു കരുതുക ഇതാണ് 2 കോമ 4 ഇന്റർസെക്ഷൻ സെക്കൻഡ് നിരയും താഴെ നിന്ന് നാലാമത്തെ വരിയും ഇത് യഥാർത്ഥത്തിൽ 2 കോമ 3 ആണ് പക്ഷേ 1 2 3 4 അതെ 2 കോമ 4 ഇപ്പോൾ നമുക്ക് ഇതിലൂടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രത്യേക ബ്ലോക്ക് കവലയിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും പാത ഇനി കണക്കാക്കില്ല ആ 3003 പാതകളിൽ ചിലത് ഇനി സാധുവായ പാത അല്ല ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ യഥാർത്ഥത്തിൽ വരച്ച നീല പാത ഇത് വഴി പോകുന്നു ചുവന്ന പാത പോകുന്നില്ല മഞ്ഞ പാത നിർഭാഗ്യവശാൽ ഈ മോശം സെക്ഷനിൽ നീല പാതയുമായി ഓവർലാപ്പു ചെയ്ത് ഇതിലൂടെ കടന്നുപോകുന്നു 3003 ൽ നിന്ന് അനുവദനീയമായ ചില പാതകൾ ഉണ്ട് അല്ലാത്തവയുമുണ്ട് ഇത്തരത്തിലുള്ള ബ്ലോക്കിനെ എത്ര പാതകൾ അതിജീവിച്ചുവെന്ന് നമ്മൾ എങ്ങനെ നിർണ്ണയിക്കും അതുകൊണ്ട് നാം വീണ്ടും ഒരു കോമ്പിനേറ്റോറിയൽ ആർഗ്യുമെന്റ് ഉപയോഗിക്കാൻ കഴിയും ബ്ളോക്ഡ് അകാൻ വേണ്ടി ഒരു പാത 2 4 ൽ പോയി അവിടെ നിന്ന് 5 5 ലേക്ക് പോകണം 0 0 മുതൽ 2 4 വരെ എത്ര പാതയാണ് പോകുന്നതെന്നും 2 4 മുതൽ 5 10 വരെ എത്ര പാതയാണ് പോകുന്നതെന്നും നമുക്ക് കണക്കാക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം മോശം പാതയാണ് നമുക്ക് ഈ മോശം പാത്ത് കണക്കാക്കാനും നല്ല പാത്തിൽ നിന്ന് കുറയ്ക്കാനും കഴിയും മോശം പാത്ത് എങ്ങനെ നന്നായി കണക്കാക്കാം അതിനു പ്രശ്നത്തിന്റെ ഒരു ചെറിയ പതിപ്പ് നമുക്ക് പരിഹരിക്കാൻ കഴിയും നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ടാർഗെറ്റ് ഉണ്ട് നമ്മൾ ഈ ഗ്രിഡ് പരിഹരിക്കുന്നു ഇവിടെ നിന്ന് ഇവിടേക്ക് എത്ര പാത്ത് പോകുന്നു എത്ര പാത്ത് ഇവിടെ നിന്ന് ഇവിടെ പോകുന്നു 0 0 മുതൽ 2 4 വരെ നമുക്ക് 4 പ്ലസ് 2 ലഭിക്കുന്നു ഓർക്കുക10 പ്ലസ് 5 ഇത് കർവ് ആണ് അല്ലെങ്കിൽ 10 നേടുക 4 പ്ലസ് 2 ചൂസ് 2 അങ്ങനെ നമ്മൾ ഇവിടെനിന്ന് ഇവിടെ വരെ 15 എണ്ണം കിട്ടും വ്യത്യാസം എന്തെന്നാൽ നാം രണ്ടു ദിശകൾ ചെയ്യണം 3 എന്നിങ്ങനെ ക്ഷമിക്കണം 6 വരെ പോകേണ്ടതുണ്ട് നമ്മൾ വലത്തോട്ടു 3 പോകണം നമ്മൾ 2 4 ൽ ആണ് അതുകൊണ്ട് നമ്മൾ 4 മുതൽ 10 വരെയും 2 മുതൽ 5 വരെയും പോകണം നമുക്ക് 6 പ്ലസ് 3 ചൂസ് 3 2 4 ൽ നിന്ന് ഇതിലേക്ക് പോകാനുള്ള 84 വഴികളുണ്ട് ചുവടെയുള്ള ഓരോ വഴികളും മുകളിലുള്ള ഒരു വഴിയുമായി സംയോജിപ്പിക്കാം ഇതിനെ ഗുണിക്കുമ്പോൾ ഈ മോശം കവല കടന്നുപോകുവാൻ നമുക്ക് 1260 പാതകൾ ലഭിക്കുന്നു ഇത് നമ്മൾ യഥാർത്ഥ എണ്ണം 3003 ൽ നിന്ന് കുറച്ചാൽ നമുക്ക് ശേഷിക്കുന്ന 1743 പാതകൾ ലഭിക്കും ഒരു കോമ്പിനേറ്റോറിയൽസമീപനം ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഇപ്പോൾ അത്തരം 2 കവലകൾ ഉണ്ടെങ്കിൽ എന്തുസംഭവിക്കും ആദ്യത്തെ കേസ് പോലെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാം ആദ്യത്തെ ബ്ലോക്ക് കാരണം അടഞ്ഞ എല്ലാ വഴികളും കണക്കാക്കാൻ നമുക്ക് കഴിയും ഈ കേസിൽ 4 4 ബ്ലോക്ക് ഉള്ള രണ്ടാമത്തെ കവലയാണ് അതിലൂടെ കടന്നുപോകുന്ന എല്ലാ വഴികളും നമുക്ക് കണക്കാക്കാം ഈ 4 4 കവല വഴി കടന്നുപോകുന്ന ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കണക്കാക്കാം ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം 2 4 എന്നതിനായി നമ്മൾ ഇത് കണക്കുകൂട്ടി പക്ഷേ 2 4 4 4 എന്നിവയിലൂടെ കടന്നുപോകുന്ന മഞ്ഞ പാത്ത് പോലുള്ള ചില വഴികൾ ഉണ്ട് എന്നതാണ് പ്രശ്നം മൂന്നാമത്തെ എണ്ണം നമുക്ക് ആവശ്യമാണ് അതായത് ഇവ രണ്ടും കടന്നുപോകുന്ന പാത്ത് എണ്ണുകയും അവ ഇരട്ടിയായി കണക്കാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണം ഒരു വഴി നമ്മൾ ഇവ തിരികെ ചേർക്കുന്നു എന്നതാണ് ഇതിനെ കോമ്പിനേറ്ററിക്സ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുന്നു ഓവർലാപ്പിങ് എക്സ്ക്ളൂഷൻ ഉള്ളപ്പോൾ നമ്മൾ ഓവർലാപ്പുകൾ കണക്കാക്കി അവ തിരികെ ഉൾപ്പെടുത്തണം ഘട്ടം ഘട്ടമായി നമ്മൾ ഇത് ചെയ്യുന്നത് തുടരണം നമുക്ക് 3 ഹോൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ സങ്കീർണ്ണമായ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ സമവാക്യം ലഭിക്കുന്നു മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട സൂത്രവാക്യം കണക്കാക്കുന്നത് പോലും വളരെ സങ്കീർണ്ണമാവുന്നു ഇത് ചെയ്യുന്നതിന് ലളിതമായ ഒരു മാർഗമുണ്ടോ പ്രശ്നത്തിന്റെ ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ നോക്കാം i j എന്ന കവലയിലേക്ക് ഒരു സ്റ്റെപ്പിൽ കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നമ്മുടെ റോഡുകൾ ഇടത്തു നിന്ന് വലത്തോട്ടും താഴെ നിന്ന് മുകളിലേക്കും മാത്രമേ പോകു എങ്കിൽ ഇവിടേയ്ക്ക് ഒരു സ്റ്റെപ്പിൽ എങ്ങിനെ എത്താൻ കഴിയും I J എത്താൻ ഉള്ള ഒരേയൊരു വഴി അതിന്റെ ഇടത് വശത്തെ സെല്ലിൽ നിന്ന് വലതു വശം ചേർന്ന് പോകുക എന്നതാണ് നമുക്ക് i 1 j ൽ നിന്ന് i j ലേക്ക് പോകാം അല്ലെങ്കിൽ താഴെ നിന്നു i j 1 ൽ നിന്ന് i j ലേക്ക് പോകാം ഒരു പാത ഇടതുവശത്ത് നിന്ന് വന്നാൽ അത് താഴെ നിന്ന് വരുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്നത് ശ്രദ്ധിക്കുക ഇടതുവശത്ത് നിന്ന് വരുന്ന ഓരോ പാതയും താഴെ നിന്ന് വരുന്ന എല്ലാ പാതയിൽ നിന്നും വ്യത്യസ്തമാണ് നമുക്ക് ഇവ കൂട്ടി ചേർക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ pathsi j എന്ന് പറഞ്ഞാൽ 0 0 മുതൽi j വരെയുള്ള പാത്തിന്റെ എണ്ണം കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ പാത്ത് എല്ലാം 2 ഡിസ്ജോയിന്റ് സെറ്റ് ആയി വിഭജിക്കണം റിക്കേഴ്സീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഇടത് വശത്ത് നിന്ന് വരുന്നവയെ pathsi 1 j ആയി സജ്ജീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു i 1 j യിൽ എത്തുന്ന എത്ര പാത ഉണ്ട് അവയെല്ലാം തന്നെ വലത് വശത്തു കൂടെ I J വരെ ദീർഘിപ്പിക്കാൻ കഴിയും അവയെല്ലാം വ്യത്യസ്തമായിരിക്കും അതുപോലെ പാത്ത് I J 1 ചെയ്യുന്നു അത് താഴെ നിന്ന് വരുന്ന എല്ലാ പാതകളും ആയിരിക്കും കാരണം അവയെല്ലാം i j യുടെ തൊട്ടുതാഴെയുള്ള സ്ഥാനത്ത് എത്തുന്നു അവിടെ നിന്ന് ഓരോന്നും സവിശേഷമായ രീതിയിൽ i j വരെ വിപുലീകരിക്കും ഇത് നമ്മുടെ ലളിതമായ ഇൻഡക്റ്റീവ് ഫോർമുല ആണ് paths ij എന്നാൽ സം ഓഫ് paths i 1j paths IJ 1 ആണ് അപ്പോൾ നമ്മൾ തീർച്ചയായും അടിസ്ഥാന കേസുകൾ അന്വേഷിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ യഥാർത്ഥ അടിസ്ഥാന കേസ് paths 0 0 ആണ് എത്ര വഴികളിലൂടെ എനിക്ക് 0 0 എന്നതിൽ നിന്ന് പോകാൻ കഴിയും 0 0 യിൽ തന്നെ നിൽക്കാൻ കഴിയും ഒരു വഴി മാത്രമേ ഉള്ളു അത് 0 വഴികൾ ആണ് എന്നാൽ അങ്ങിനെ പറയാൻ പറ്റില്ല അത് ഒരു വഴി ആണ് കാരണം അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല 0 0 യിൽ നിൽക്കാൻ ഒന്നും ചെയ്യാതെ നമുക്ക് ഒരു വഴിയുണ്ട് നമ്മൾ ഇപ്പോൾ ഇടത് നിരയിലൂടെ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇടത് നിരയിലൂടെ നീങ്ങുകയാണെങ്കിൽ ഇടത് നിരയിൽ നിന്ന് വഴികൾ ഒന്നും വരില്ല കാരണം നമ്മൾ ഇതിനകം തന്നെ ഇടത് നിരയിൽ ആണ് 0 j ലേക്കുള്ള എല്ലാ വഴികളും താഴെ നിന്നും 0 j 1 വരെയുള്ള വഴികളുടെ വിപുലീകരണങ്ങളായിരിക്കണം അതുപോലെ നിങ്ങൾ താഴത്തെ വരിയിലാണെങ്കിൽ താഴെ നിന്ന് വരാൻ ഒരു വഴിയുമില്ല കാരണം നമ്മൾ ഇതിനകം തന്നെ ഏറ്റവും താഴെയുള്ള റോഡുകളിലാണ് pathsi 0 ക്ക് paths i 1 0 യിൽ നിന്ന് ഇടത് വശത്ത് നിന്ന് മാത്രമേ വരാൻ കഴിയൂ ഇത് യഥാർത്ഥത്തിൽ ഹോൾസ് ഉപയോഗിച്ച് കണക്കുകൂട്ടുന്നതിനുള്ള ഒരു നേരിട്ടുള്ള മാർഗ്ഗം നൽകുന്നു കാരണം ഇപ്പോൾ ഉള്ള ഒരേയൊരു വ്യത്യാസം ഒരു ഹോൾ ഉണ്ടെങ്കിൽ പാത്ത് ഒന്നും ആ സ്ഥലത്ത് എത്താൻ കഴിയില്ലെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നതാണ് നമ്മൾ അതുകൊണ്ട് പറയുന്ന അധിക ക്ലോസ് ഇതാണ് ഒരു ഹോൾ I J ഉണ്ടെങ്കിൽ pathsI J 0 ആണ് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി അതേ ഇൻഡക്റ്റീവ് ഫോർമുലേഷൻതന്നെ ഉപയോഗിക്കും ഇപ്പോൾ എന്തു സംഭവിക്കുന്നു താഴെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ദിശയിൽ പാത്ത് ഒന്നും വരാൻ പാടില്ല കാരണം ഡെഫിനിഷ്യൻസ് അനുസരിച്ച് ആ പോയിന്റിലെ pathsI J 0 ആണ് ഇപ്പോൾ നമ്മൾ ഇത് വീണ്ടും പ്രയോഗിക്കുകയും ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസിൽ നിന്ന് ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാമിലേക്കുള്ള സ്റ്റാൻഡേർഡ് വിവർത്തനം ഉപയോഗിച്ച് ഇത് ചെയ്യുകയും ചെയ്താൽ ഒരേ കാര്യം നമ്മൾ വീണ്ടും കണക്കുകൂട്ടും എന്ന് മനസിലാകും ഉദാഹരണത്തിനു നമുക്ക് paths510 ഉണ്ടെങ്കിൽ അത് ഇതും ഇതും കണക്കുകൂട്ടാൻ ആവശ്യപ്പെടും 2 സബ് പ്രോബ്ലെംസ് ആണിവ paths5 10 ന്റെ സബ് പ്രോബ്ലെംസ് ആണ് 4 10 5 9 പക്ഷേ 4 10 കണക്കുകൂട്ടുന്നതിനായി ഞാൻ അതിന്റെ ഇടതുവശത്തു താഴെയുള്ളത് കണക്കുകൂട്ടേണ്ടതുണ്ട് ഇപ്പോൾ 5 9 ആണെങ്കിൽ അതിന്റെ ഇടത്തും താഴെയുമുള്ളത് ഞാൻ കണക്കുകൂട്ടേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ഈ 4 9 നമ്മൾ രണ്ടുതവണ കണക്കാക്കുന്നു കാരണം ഒരിക്കൽ ഇത് 5 10 ന്റെ ഇടത് അയൽക്കാരൻ ആണ് അടുത്ത കേസിൽ അത് 510 ന്റെ താഴെയുള്ള അയൽക്കാരൻ ആണ് നമ്മൾ മുമ്പ് കണ്ടതുപോലെ മെമ്മോഐസേഷൻ ഉപയോഗിച്ചാൽ ഒരിക്കലും i j രണ്ടു വട്ടം കണക്കുകൂട്ടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയും അതിന് ടേബിൾ ij ഉണ്ടാക്കണം കൂടാതെ ij ക്കായി ഒരു പുതിയ മൂല്യം കണക്കാക്കുമ്പോഴെല്ലാം നമ്മൾ അത് ടേബിളിൽ സൂക്ഷിക്കുന്നു ഓരോ തവണ നോക്കുമ്പോഴും നമ്മൾ ആദ്യം ടേബിൾ പരിശോധിക്കേണ്ടതുണ്ട് അത് ഇതിനകം തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുന്നു അല്ലാത്തപക്ഷം നമ്മൾ അത് കണക്കുകൂട്ടി സംഭരിക്കും പക്ഷേ ഒരു ടേബിൾ ഉണ്ടെന്നു നമുക്കറിയാം അതിന്റെ സ്ട്രക്ച്ചർ അടിസ്ഥാനപരമായി i കോമ j എന്ന ഫോമിലുള്ള എൻട്രികളുമാണ് സബ് പ്രോബ്ലെംസിന്റെ ഡിപെൻഡൻസിയുടെ അടിസ്ഥാനത്തിൽ അവ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ ടേബിൾ ഐട്രേറ്റിവ് ആയി പൂരിപ്പിക്കാൻ കഴിയുമോ എന്നും നമുക്ക് കാണാൻ കഴിയും പൊതുവായി പറഞ്ഞാൽ ഒരു നോഡ് വാല്യൂ അതിന്റെ തഴെ ഇടതു വശത്തുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഡിപൻഡൻസികളൊന്നുമില്ലെങ്കിൽ അതിന് ഇടതുവശത്ത് ഒന്നുമില്ല ചുവടെ ഒന്നുമില്ല അത്തരമൊരു പോയിന്റ് 0 0 മാത്രമേയുള്ളൂ ഇടത് വശത്തും താഴെയും ഒന്നുമില്ലാത്ത അടിസ്ഥാന കേസായ ഒരേയൊരു പോയിന്റാണിത് അതിന്റെ മൂല്യം നേരിട്ട് വായിക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു 0 0 യുടെ അടിസ്ഥാന മൂല്യം ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്താൽ ഓർക്കുക നിങ്ങൾ റോഡ് ഡിപൻഡൻസി ഓർക്കുക അത് പറഞ്ഞു i 0 എന്നാൽ i 1 0 ആണ് നമുക്ക് ഇത് വരെ പൂരിപ്പിക്കാൻ കഴിയും കാരണം ഇതിന് ഇപ്പോൾ ഒരു ഡിപെൻഡൻസി മാത്രമേ ഉള്ളു അത് ഇപ്പോൾ അറിയാം ഈ രീതിയിൽ എനിക്ക് മുഴുവൻ വരിയും പൂരിപ്പിച്ച് പറയാൻ കഴിയും ഈ വരിയിലുടനീളം വലത്തേക്ക് പോകുന്ന ഒരു പാത മാത്രമേയുള്ളൂ ഇപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയാൽ ഈ കാര്യവും അറിയാമെന്ന് കാണാൻ കഴിയും കാരണം ഇത് അതിന് താഴെയുള്ള മൂല്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അത് അറിഞ്ഞുകഴിഞ്ഞാൽ ഈ 2 എണ്ണവും അറിയപ്പെടും എനിക്ക് അവരെ ആഡ് ചെയ്ത് ചേർക്കാൻ കഴിയും ഓർമ്മിക്കുക ഏതൊരു സ്ഥാനത്തും ഉള്ള മൂല്യം അതിന്റെ ഇടതുവശത്തുള്ള മൂല്യവും അതിന്റെ താഴെയുള്ള മൂല്യവും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇപ്പോൾ എനിക്ക് ചില നോൺ ട്രിവിയൽ വാല്യൂസ് കിട്ടുന്നു ഈ രീതിയിൽ എനിക്ക് ഈ പട്ടിക വരി വരിയായി പൂരിപ്പിക്കാൻ കഴിയും ഓരോ ഘട്ടത്തിലും എനിക്ക് വാല്യൂ ലഭിക്കും ഡിപെൻഡൻസി അറിയില്ല അടുത്ത വരി ഇതുപോലെയാണ് അടുത്ത വരി ഇതാണ് ഇപ്പോൾ നമ്മൾ ഹോൾസ് ഉള്ള വരിയിലേക്ക് വരുന്നു ഹോൾസ് ഉള്ള വരിയിൽ ഹോൾ എത്തുമ്പോൾ എല്ലാം ഇടത് വശത്തു താഴെയുള്ള വാല്യൂ ചേർത്ത് സാധാരണ ലഭിക്കുന്ന മൂല്യം എഴുതുന്നതിനുപകരം നമ്മൾ മനപൂർവ്വം 0 ഇടുന്നു കാരണം യഥാർത്ഥത്തിൽ ആ വരിയിൽ അങ്ങിനെ ഒരു പാത അനുവദനീയമല്ല ഇപ്പോൾ അടുത്ത വരിയിലേക്ക് വരുമ്പോൾ ഹോൾസ് തെറ്റായ ദിശയിൽ നിന്ന് വരുന്ന പാതകളെ യാന്ത്രികമായി തടയും ഇവിടെ നമുക്ക് ഇടതുവശത്ത് നിന്ന് 6 പാത്ത് മാത്രമേ ഉള്ളൂ കാരണം താഴെ നിന്ന് വരുന്ന പാത്ത് ഇല്ല അതുപോലെ തന്നെ നമുക്ക് 26 പാത്ത് ഇടതുവശത്ത് നിന്ന് വരുന്നു താഴെ നിന്ന് പാത്ത് ഇല്ല ഇങ്ങനെയാണ് നമ്മുടെ ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് ഹോൾസ് കൈകാര്യം ചെയ്യാൻ ഭംഗിയായി അനുവദിക്കുന്നത് ആ ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസിൽ നിന്ന് നമ്മൾ ഡിപൻഡൻസി ഘടനയെ തിരിച്ചറിയുകയും മെമ്മോ ടേബിൾ സങ്കൽപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഈ മെമ്മോ ടേബിൾ വരിവരിയായി പൂരിപ്പിക്കുന്നു അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ i j മൂല്യം എത്തുമ്പോൾ അതിന്റെ ഡിപെൻഡൻസി മൂല്യങ്ങൾ ഇതിനകം തന്നെ അറിയാം നമുക്ക് ഈ വരിവരിയായി ചെയ്യുന്നത് തുടരാം ഒടുവിൽ ഇവ രണ്ടും ഒഴിവാക്കുന്ന 1363 പാത്ത് ഉണ്ടെന്ന് നമുക്ക് കാണാം താഴത്തെ വരി ചെയ്യുന്നതിനുപകരം നമുക്ക് സമാനമായ മറ്റൊരു രീതിയിൽ ചെയ്യാനാകും നമുക്ക് അതേ യുക്തി ഉപയോഗിച്ചു ഇടത് നിര ചെയ്യാൻ കഴിയും തുടർന്ന് നമുക്ക് മുകളിലേക്ക് പോകാം ശേഷം നമുക്ക് രണ്ടാമത്തെ നിരയിൽ ആരംഭിക്കാൻ കഴിയും മുകളിലേയ്ക്ക് പോയി ഈ നിര മുഴുവൻ ചെയ്യുക പ്രതീക്ഷിച്ച പോലെ നമുക്ക് ഒരേ ഉത്തരം ലഭിക്കണം ഇതു ചെയ്യാൻ ഒരു മൂന്നാം മാർഗം ഉണ്ട് നമുക്ക് 0 0 യിൽ ഒന്ന് ഉണ്ട് ഇനി അതിന് മുകളിലുള്ള ആദ്യത്തെ ഘടകവും വലതു വശത്തെ ആദ്യത്തെ ഘടകവും പൂരിപ്പിക്കാൻ കഴിയും നമുക്ക് ഈ ഡയഗണൽ ചെയ്യാൻ കഴിയും ഇതുപോലുള്ള ഒരു ഡയഗണൽ മൂല്യത്തിന് അതിന്റെ രണ്ട് എൻട്രികളും ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ഇതിന് ഒരു എൻട്രി മാത്രമേയുള്ളൂ ഇതിനും എനിക്ക് ഇപ്പോൾ ഈ ഡയഗണൽ പൂരിപ്പിക്കാൻ കഴിയും എനിക്ക് ഒരു ഡയഗണൽ കൂടി പോകാം തുടർന്ന് എനിക്ക് ഒരു ഡയഗോണലിലേക്ക് പോകാം അങ്ങിനെ നമുക്ക് ഈ കാര്യം ഡയഗണലായി പൂരിപ്പിക്കാനും കഴിയും ഡിപൻഡൻസി ഘടന ഒരു പ്രത്യേക രീതിയിൽ അത് പൂരിപ്പിക്കാൻ നമ്മളോട് ആവശ്യപ്പെടണമെന്നില്ല അത് പൂരിപ്പിക്കുന്നതിന് നമുക്ക് വളരെ വ്യത്യസ്തമായ വഴികളുണ്ടാകാം നമ്മൾ ചെയ്യേണ്ടത് ആസൂത്രിതമായി ഈ ടേബിൾ ഐട്രേറ്റിവ് ആയി പൂരിപ്പിക്കുക എന്നതാണ് റിക്കേഴ്സീവ് ആയിട്ടല്ല നമ്മൾ എഫ് ഓഫ് I j വിളിച്ച് ശേഷം എഫ് ഓഫ് i മൈനസ് 1 j വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരിട്ട് നമുക്ക് പറയാൻ കഴിയണം I j എത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മൂല്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമുള്ള മൂല്യങ്ങൾ ഒന്നിലധികം വ്യത്യസ്ത ഓർഡറുകളിൽ വരാം നമുക്ക് ഇത് വരി തിരിച്ച് ചെയ്യാമായിരുന്നു നമുക്ക് ഇത് നിര തിരിച്ച് ചെയ്യാമായിരുന്നു ഇവിടെ ഡയഗണലായി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു പക്ഷേ നമുക്ക് ആവശ്യമായ എല്ലാ മൂല്യങ്ങളും യഥാർത്ഥത്തിൽ ലഭിക്കുന്നിടത്തോളം കാലം ഇത് ഒരു പ്രശ്നമല്ല ഒരു ചെറിയ പോയിന്റ് ഇതാണ് നമുക്ക് മെമ്മോഐസേഷൻ ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാമെന്നും നമ്മൾ പറഞ്ഞു ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നതിന്റെ ഗുണം ഇത് ഈ റിക്കേഴ്സീവ് കോൾ ഒഴിവാക്കുന്നു എന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിക്കർഷൻ മുമ്പത്തെ ചില പ്രഭാഷണങ്ങളിലും നമ്മൾ കണ്ടിരുന്നുഅതിനു ഒരു പ്രൈസ് ഉണ്ട് കാരണം നിങ്ങൾ ഒരു റിക്കേഴ്സീവ് കോൾ വിളിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഒരു കണക്കുകൂട്ടൽ താൽക്കാലികമായി നിർത്തണം ചില മൂല്യങ്ങൾ സംഭരിക്കണം ആ മൂല്യങ്ങൾ പുനസ്ഥാപിക്കണം റിക്കർഷൻ ചെയ്യുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരൊറ്റ പ്രവർത്തനം മാത്രമാണെന്ന് തോന്നും നമ്മൾ fib ഓഫ് n മൈനസ് 1 എന്ന് വിളിക്കുകയും അല്ലെങ്കിൽ fib ഓഫ് n മൈനസ് 2 വിളിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നതിനും അവിടെ പോയി തിരികെ വരുന്നതിനും ഒരു ചിലവുണ്ട് റിക്കർഷൻ ചിലവ് ഒഴിവാക്കുക എന്നത് മെമ്മോഐസേഷനിൽ നിന്ന് ഡൈനാമിക് പ്രോഗ്രാമിംഗിലേക്ക് മാറാനുള്ള ഒരു പ്രധാന കാരണമാണ് എന്നാൽ അന്തിമ ഉത്തരത്തിന് ഉപയോഗപ്രദമാകുമോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ ഓരോ മൂല്യവും വിലയിരുത്തുകയാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് ഗ്രിഡ് പാത്ത് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് സങ്കൽപ്പിക്കുക ഈ തടസ്സങ്ങൾ കൃത്യമായി ഈ അതിർത്തിയുടെ ഒരു സ്റ്റെപ് ഉള്ളിൽ വെച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ മുകളിലെ വരിയിലൂടെയോ വലതുവശത്തെ നിരയിലേക്കുള്ള വഴികളിലൂടെയോ മാത്രമേ എനിക്ക് വരാൻ കഴിയൂ എന്ന് വ്യക്തമായി മനസ്സിലാകും എനിക്ക് അവയിലേക്ക് എത്താൻ മറ്റൊരു വഴിയുമില്ല ഈ സ്ഥാനങ്ങൾക്കുള്ളിലുള്ള എന്തു തന്നെയായാലും ഇവിടെ നിന്ന് പുറത്തുപോകാൻ വഴിയില്ല ഈ മൂല്യങ്ങളെല്ലാം എണ്ണുന്നതിൽ അർത്ഥമില്ല ഈ തടസ്സങ്ങളുടെ നിഴലിലുള്ള ഈ പ്രദേശം നമുക്കുണ്ട് അന്തിമഘട്ടത്തിലെത്താൻ അവക്ക് കഴിയില്ല നമ്മൾ മെമ്മോഐസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചുവന്ന് ആവർത്തിച്ച് പര്യവേക്ഷണം ചെയ്യുന്നു ഇത് ഒരിക്കലും നമ്മൾ ഇവിടെ വരാൻ ആവശ്യപ്പെടില്ല കാരണം ഇത് ഒരിക്കലും ഈ അതിരുകൾ കടക്കില്ല മറുവശത്ത് നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈ എല്ലാ കാര്യങ്ങളിലും അന്ധമായി നടക്കും ഇത് വരിവരിയായി നിരനിരയായി നോക്കി ഒടുവിൽ 0 കണ്ടെത്തും പക്ഷേ ഇത് n ബൈ n ഗ്രിഡ് മുഴുവൻ പൂരിപ്പിക്കും ഈ സാഹചര്യത്തിൽ എത്ര എണ്ണം മെമ്മോഐസേഷൻ ചെയ്യും ഇത് അടിസ്ഥാനപരമായി അതിർത്തി മാത്രം ചെയ്യും ഇത് ഓർഡർ m n മാത്രമേ ചെയ്യൂ വരികളുടെയും നിരകളുടെയും അടിസ്ഥാനത്തിൽ ലീനിയർ എണ്ണം എൻട്രികളുള്ള മെമ്മോ ടേബിൾ ഉണ്ട് ക്വാഡ്രാറ്റിക് മാത്രമുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗ് എൻട്രിയും നമ്മുടെ പക്കലുണ്ട് രണ്ടും n ആയിരുന്നെങ്കിൽ ഇത് n സ്ക്വയർഡ് ഇത് 2n ആയിരിക്കും എണ്ണം സൂചിപ്പിക്കുന്നത് ഈ കേസിൽ ഡൈനാമിക് പ്രോഗ്രാമിങ് അനാവശ്യമായി വിശാലമായ എൻട്രികൾ കമ്പ്യൂട്ടിങ് ചെയ്തു എന്നാണ് n സ്ക്വയർ 2n നേക്കാൾ വളരെ വലുതാണ് എന്ന് ഓർമിക്കുക നമ്മൾ ഇത് കണക്കുകൂട്ടാൻ വളരെയധികം സമയമെടുക്കും കോസ്റ്റ് പെർ എൻട്രി നോക്കിയാൽ പക്ഷേ ഫ്ലിപ്പ് സൈഡ് എന്താണെന്നു വച്ചാൽ മെമ്മോ ടേബിളിൽ ചേർക്കേണ്ട ഓരോ എൻട്രിക്കും ഒരു റിക്കേഴ്സീവ് കോൾ ആവശ്യമാണ് എന്നതാണ് മുഴുവൻ പട്ടികയും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പാഴായതിനേക്കാൾ ഈ റിക്കേഴ്സീവ് കോളുകൾ സാധാരണഗതിയിൽ ചിലവേറിയതാണ് എന്നതാണ് യാഥാർത്ഥ്യം സാധാരണ പ്രശ്നം വിശകലനം ചെയ്യുമ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനെക്കാൾ കുറച്ചു പുതിയ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യുന്നു എന്ന നിലയിൽ മെമ്മോഐസേഷൻ ഉപയോഗിക്കാം എന്നാൽ കണക്കുകൂട്ടൽ നടത്താനുള്ള ഡിഫോൾട്ട് മാർഗമായി ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് സാധാരണയായി കുറച്ചു കൂടെ ലാഭകരമാണ്